തിരികെ സ്വാഗതം ഇത് ലെക്ചർ നമ്പർ 40 ആണ് നമ്മൾ വെക്റ്ററുകളുടെ ലീനിയർ ഇൻഡിപെൻഡൻസിനെക്കുറിച്ച് അഥവാ വെക്റ്ററിന്റെ ലീനിയർ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കും പ്രത്യേകിച്ചും വെക്റ്ററുകളുടെ ലീനിയർ കോമ്പിനേഷനുകളും വെക്റ്ററുകളുടെ ലീനിയർ ഇൻഡിപെൻഡൻസും നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തും എന്താണ് ലീനിയർ കോമ്പിനേഷൻ അത് എന്ന രൂപത്തിലുള്ള ഒരു പദപ്രയോഗം ആണ് ഇവിടെ കൾ റിയൽ നമ്പറുകളുടെ കൂട്ടത്തിൽ പെടുന്നു ഇതിനെ എന്നീ വെക്റ്ററുകളുടെ ലീനിയർ കോമ്പിനേഷൻ എന്ന് വിളിക്കുന്നു അതിനാൽ ഇവിടെ നൽകിയിരിക്കുന്ന എന്നീ വെക്റ്ററുകൾക്ക് എന്ന എക്സ്പ്രഷനെ ഈ നൽകിയ വെക്റ്ററുകളുടെ ലീനിയർ കോമ്പിനേഷൻ എന്ന് വിളിക്കുന്നു ഇവിടെ കൾ രേഖീയ സംഖ്യകളുടെ ഗണത്തിൽ പെടുന്നു ഇവിടെ ഒരു റിമാർക്ക് ഉണ്ട് R ന് മേലുള്ള ഒരു വെക്റ്റർ സ്പേസ് ആണ് V അതിലെ ഒരു എലമെന്റ് ആണ് v ഈ വെക്ടറിനെ ഇതേ വെക്ടർസ്പേസിലെ എന്നീ വെക്ടറുകൾ ഉപയോഗിച്ച് എന്ന രൂപത്തിൽ എഴുതാൻ സാധിക്കുന്ന ൽ നിന്നുള്ള എന്നീ സ്കാലാർകൾ എക്സിസ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യെ എന്നീ വെക്ടറുകൾടെ ലീനിയർ കോമ്പിനേഷൻ എന്ന് വിളിക്കാം ഈ വെക്റ്റർ v എന്നത് വെക്റ്റർ സ്പേസിൽ നിന്ന് നമ്മൾ എടുക്കുന്ന പൊതുവായ പദമാണ് അവ മെട്രിക്സ് ആകാം അവ പോളിനോമിയൽ തുടങ്ങിയവ ആകാം അതിനാൽ ഇവിടെ നൽകിയിരിക്കുന്ന v ഇവിടെ ഈ മറ്റ് വെക്റ്ററുകളുടെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയി നമുക്ക് എഴുതാം അപ്പോൾ v യെ എന്നീ വെക്റ്ററുകളുടെ ലീനിയർ കോമ്പിനേഷൻ എന്ന് വിളിക്കുന്നു അതിനാൽ ഇവിടെയുള്ള ഉദാഹരണം നമ്മൾ ഈ നാല് വെക്റ്ററുകൾ എടുക്കുന്നു ഇപ്പോൾ ഇനിപ്പറയുന്ന ചോദ്യങ്ങളുണ്ട് ഇവിടെ എന്നിവയുടെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആണോയെന്ന് പരിശോധിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു കൂടാതെ ഈ ഇവിടെ എന്നിവയുടെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആണോയെന്നതും അതോടൊപ്പം ഇവിടെ എന്നിവയുടെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആണോയെന്നതും ഈ ചോദ്യങ്ങൾക്ക് നമ്മൾ ഇവിടെ ഉത്തരം നൽകും ആദ്യത്തേത് എന്നത് എന്നിവയുടെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആണോയെന്നതിന് ഉത്തരം നൽകാനുണ്ട് ചില കൾക്ക് ഈ യെ എന്ന് എഴുതാൻ കഴിയുമെങ്കിൽ നമ്മൾ അതെ എന്ന് വിളിക്കും ഈ ആൽഫ ഒരു ലീനിയർ കോമ്പിനേഷനാണ് അതിനാൽ ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ അത് സാധ്യമാണോ എന്ന് നമ്മൾ പരിശോധിക്കുകയും ഒടുവിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്നതിന് സാധാരണയായി ലീനിയർ സമവാക്യങ്ങളുടെ സംവിധാനത്തിൽ അവസാനിക്കുകയും ചെയ്യും ഈ ലീനിയർ സമവാക്യങ്ങൾ നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട് അത് നമുക്ക് വീണ്ടും എന്ന് എഴുതാൻ കഴിയും ഇത് നമുക്ക് കുറച്ച് ലളിതമാക്കാൻ കഴിയും ഇതിൽനിന്ന് എന്ന് ലഭിക്കുന്നു അതിനാൽ സ്വാഭാവികമായും ഈ ആൽഫ ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ് ഈ ഉദാഹരണത്തിൽ നമ്മൾ കണ്ട ബീറ്റയുടെയും ഗാമയുടെയും ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ് ഇപ്പോൾ രണ്ടാമത്തേതിന് ഇത് പരിശോധിക്കും ഇവിടെ എന്നിവയുടെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആണെങ്കിൽ എന്ന് എഴുതാം ഇതിൽ നമുക്ക് 3 സമവാക്യങ്ങൾ ഉണ്ട് അതിൽ ആദ്യത്തേതിനെക്കുറിച്ച് മറക്കുക മറ്റു രണ്ട് സമവാക്യങ്ങളും ഇവിടെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ ഉള്ള കൾ കണ്ടെത്താനാവില്ല അതിനാൽ ഇവിടെ തീർച്ചയായും എന്ന ബന്ധത്തെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന അത്തരം കൾ കണ്ടെത്താൻ നമ്മൾക്ക് കഴിയില്ല അതിനാൽ നമുക്ക് ഇപ്പോൾ എന്താണ് ലഭിക്കുന്നത് അതിനർത്ഥം എന്നീ രണ്ട് ഘടകങ്ങളുടെ ലീനിയർ കോമ്പിനേഷൻ അല്ല ഈ എന്നത് അതിനാൽ ഇതൊരു ഇൻകൺസിസ്റ്റന്റ് സിസ്റ്റമാണ് ഇതിന് പരിഹാരമില്ല അതിനാൽ എന്നത് എന്നിവയുടെ ഒരു ലീനിയർ കോമ്പിനേഷൻ അല്ല ഇപ്പോൾ ഇവിടെ മൂന്നാമത്തേതിലേക്ക് വരുന്നു എന്നത് എന്നിവയുടെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ് കേസ് ഒന്നിൽ നമ്മൾ കണ്ടിട്ട് ഉണ്ടായിരുന്നത് യുടെ സ്ഥാനത്ത് ആയിരുന്നു പിന്നീട് നമ്മൾക്ക് എന്നിവയ്ക്ക് പകരം എന്നിവ ഉണ്ടായിരുന്നു അതായത് എന്നത് എന്നിവയുടെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിരുന്നു എന്നതായിരുന്നു റിലേഷൻ ഇപ്പോൾ നമ്മൾ എന്നത് എന്നിവയുടെ ഒരു ലീനിയർ കോമ്പിനേഷനാണോ എന്ന് നമ്മൾ ചോദിക്കുന്നു സ്വാഭാവികമായും എന്നത് എന്നിവയുടെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ് മാത്രമല്ല നമ്മൾ ഒന്നും തെളിയിക്കേണ്ടതില്ല കാരണം ആദ്യ ഭാഗത്തിൽ എന്ന ഈ ബന്ധം നമ്മൾ ഇതിനകം കാണിച്ചു തുടർന്ന് അതിൽനിന്നും നമുക്ക് സ്വാഭാവികമായും എന്ന് കിട്ടുന്നു അതിനാൽ എന്നത് എന്നിവയുടെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ് ഇത് ഈ പ്രശ്നത്തിന്റെ ഈ പാർട്ട് 1 ൽ നിന്ന് തുച്ഛമായി ലഭിക്കുന്നു ഇപ്പോൾ ഇവിടെ അടുത്ത വിഷയത്തിലേക്ക് പോകുന്നു വെക്റ്ററുകളുടെ ലീനിയർ ഇൻഡിപെൻഡൻസിനെക്കുറിച്ച് ആണ് നമ്മൾ സംസാരിക്കുന്നത് V എന്നത് ഇവിടെ ഒരു വെക്റ്റർ സ്പേസ് ആണ് V യിൽ നിന്ന് എന്നീ പരിമിതമായ വെക്റ്ററുകൾ എടുക്കുന്നു തുടർന്ന് എങ്കിൽ ഈ വെക്റ്ററുകളെ ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടറുകൾ എന്ന് പറയപ്പെടുന്നു

അതിനാൽ ഇവിടെ നൽകിയിരിക്കുന്ന ഈ വെക്റ്ററുകളുടെ ലീനിയർ ഇൻഡിപെൻഡൻസ് ഇപ്പോൾ നമുക്ക് വീണ്ടും കണ്ടെത്താം ഈ ലീനിയർ ഇൻഡിപെൻഡൻസ്നായി നമ്മൾ എന്താണ് പരിശോധിക്കേണ്ടത് എന്ന് നൽകിയിട്ടുണ്ടെങ്കിൽ ഈ സമവാക്യങ്ങൾ പരിഹരിച്ചതിന് ശേഷം എന്ന സൊല്യൂഷൻ മാത്രമാണ് ലഭിക്കുന്നത് എങ്കിൽ ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് നമ്മൾ വിളിക്കുന്നു എന്നാൽ സൊലൂഷൻ ആയി യുടെ മറ്റെന്തെങ്കിലും നോൺസീറോ മൂല്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ വെക്റ്ററുകൾ ഇവിടെ ഡിപെൻഡന്റ് ആയിരിക്കും അതിനാൽ ആ സാഹചര്യത്തിൽ അവ ഇൻഡിപെൻഡന്റല്ല നമുക്ക് ഈ ഉദാഹരണം പരിഗണിക്കാം ഇവിടെ നമ്മൾ എന്നീ മൂന്ന് വെക്ടറുകൾ എടുത്തിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ എന്ന എക്സ്പ്രഷൻ പരിഗണിക്കും ഇതിൽ തന്നിരിക്കുന്ന വെക്ടറുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എഴുതാം ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്നു അതിനാൽ തന്നിരിക്കുന്ന വെക്റ്ററുകളുടെ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് സ്വാഭാവികമായും യുടെ 0 0 0 മൂല്യങ്ങളെ നമ്മൾ ഇവിടെ ട്രിവ്യൽ സൊല്യൂഷൻ എന്നാണ് വിളിക്കുക പക്ഷേ നമ്മൾക്ക് മറ്റെന്തെങ്കിലും നോൺ ട്രിവ്യൽ സൊല്യൂഷനുകളുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് ട്രിവ്യൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂവെങ്കിൽ അതായത് സീറോ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂവെങ്കിൽ തന്നിരിക്കുന്ന വെക്റ്ററുകൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്ന ഒരേയൊരു സാധ്യത അതാണ് അതായത് ട്രിവ്യൽ സൊല്യൂഷൻ ആണ് അത് ഇവിടെ ഒരു യൂണിക് സൊല്യൂഷൻ ആണ് പൊതുവേ നമുക്ക് ഓഗ്മെന്റഡ് മാട്രിക്സിന്റെ രൂപത്തിൽ തന്നെ എഴുതുകയും അതിൽ നിന്ന് റോ എക്കലോൺ ഫോമിലേക്ക് റെഡ്യൂസ്ചെയ്യുകയും ചെയ്യാം അതിൽനിന്ന് നമുക്ക് ഒരു യൂണിക് സൊല്യൂഷൻ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് അനന്തമായ സൊല്യൂഷൻകൾ ലഭിക്കുന്നുണ്ടോ എന്നിവ നിരീക്ഷിക്കാം ഇത് സ്വാഭാവികമായും ഒരു സൊല്യൂഷനും ഇല്ല എന്ന കേസിന് കാരണമാകില്ല കാരണം ഇത് എല്ലായ്പ്പോഴും ഹോമോജിനിയസ് സമവാക്യത്തിന്റെ ഒരു സിസ്റ്റം ആണ് അതിന് എല്ലായ്പ്പോഴും ട്രിവ്യൽ സൊല്യൂഷൻ എങ്കിലും ഉണ്ടായിരിക്കും അതിനാൽ ഈ വെക്റ്ററുകൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് ഇവിടെ നാം കണ്ടു രണ്ടാമത്തെ ഉദാഹരണം നമ്മൾ ഇപ്പോൾ പരിശോധിക്കും അത് എന്നീ വെക്റ്ററുകൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുന്നു ഇത് പരിശോധിക്കുന്നത് വളരെ ട്രിവ്യൽആയ കാര്യമാണ് സീറോ വെക്റ്റർ സെറ്റിലുള്ളതിനാൽ നമ്മൾ എല്ലായ്പ്പോഴും പരിഗണിക്കുന്ന എന്ന സമവാക്യത്തിൽ ഇവിടെ ന് ഏതു മൂല്യവും എടുക്കാം തുടർന്ന് എന്ന് എടുത്താൽ സമവാക്യം തൃപ്തിപ്പെടും കാരണം ഈ 0 ഉപയോഗിച്ച് നമുക്ക് ഇപ്പോൾ രണ്ടാമത്തെ പദം പൂജ്യം വെക്റ്റർ ആണ് ആദ്യപദം ന് ഏതു മൂല്യം എടുത്താലും അതും പൂജ്യം വെക്റ്റർ ആണ് അതിനാൽ റിയൽ നമ്പറുകളുടെ സെറ്റിൽ നിന്നുള്ള എല്ലാ നും സമവാക്യം തൃപ്തികരമാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് ഒരു നോൺസീറോ സൊലൂഷൻ ലഭിക്കുന്നു അതായത് കൾ എല്ലാം സീറോ അല്ല അവ അനന്തമായ നിരവധി സാധ്യതകൾ നേടിക്കൊണ്ടിരിക്കുന്നു അതിനാൽ ഈ സെറ്റ് ലീനിയർലി ഡിപെൻഡന്റ് ആണ് അതിനാൽ വെക്റ്ററുകളുടെ ഗണത്തിൽ ഒരു പൂജ്യം വെക്റ്റർ ഉൾപ്പെടുത്തുമ്പോഴെല്ലാം വെക്റ്ററുകൾ ലീനിയർലി ഡിപെൻഡന്റ് ആയിരിക്കും ഇവിടെ ഈ 0 എന്നത് തന്നിരിക്കുന്ന സെറ്റിലെ വെക്റ്ററുകളിൽ ഒന്നാണ് തുടർന്ന് സെറ്റ് ലീനിയർലി ഡിപെൻഡന്റ് ആയിരിക്കണം പ്രോബ്ലം 3 നമ്മൾ എന്നീ വെക്റ്ററുകൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ എന്ന് പരിശോധിക്കുന്നു അതിനാൽ നിങ്ങൾ ഇപ്പോൾ ഈ 4 വെക്റ്ററുകളും എടുത്തിട്ടുണ്ട് അവ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ അതോ ലീനിയർലി ഡിപെൻഡന്റ് ആണോ എന്ന് പരിശോധിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു മുമ്പ് ചെയ്ത അതേ പ്രക്രിയ തുടരുന്നു അതിനാൽ തന്നിരിക്കുന്ന വെക്റ്ററുകളുടെ ലീനിയർ കോമ്പിനേഷൻ നമ്മൾ ഇവിടെ പരിഗണിക്കും അത് 0 ആയി സജ്ജമാക്കും അതായത് നമ്മൾ പരിഗണിക്കുന്നു ഇതിൽ നിന്നും എന്നീ മൂന്ന് സമവാക്യങ്ങളും പുറത്തുവരുന്നു കാരണം ഓരോ വെക്ടറുകളിലും മൂന്ന് ഘടകങ്ങൾ ഉണ്ടായിരുന്നു അതിനാൽ ഇപ്പോൾ ഈ സമവാക്യ സിസ്റ്റം ഉള്ളതിനാൽ കൾക്കായി നമ്മൾ സോൾവ് ചെയ്യേണ്ടതുണ്ട് ഈ സമവാക്യ സിസ്റ്റം ഓഗ്മെന്റഡ് മാട്രിക്സിന്റെ രൂപത്തിൽ എഴുതിയിട്ട് എലിമിനേഷൻ ചെയ്യുക അഥവാ റോ എക്കലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുക അവിടെ നിന്ന് സാഹചര്യം വ്യക്തമാകും നമ്മൾക്ക് യൂനിക് സൊലൂഷന് ലഭിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നോൺ യൂനിക് സൊലൂഷന് ലഭിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാകും അതിനാൽ ഈ സമവാക്യ സിസ്റ്റത്തിനായി ഇവിടെ നമ്മൾ ഓഗ്മെന്റഡ് മാട്രിക്സ് എഴുതിയിട്ടുണ്ട്

വലതുവശത്ത് നമ്മൾ ഇവിടെ പൂജ്യം വെക്റ്റർ ആയി എഴുതിയിട്ടുണ്ട് തുടർന്ന് നമുക്ക് ഇത് എക്കലോൺ രൂപത്തിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും ഈ സാഹചര്യത്തിൽ ഇത് വളരെ ലളിതമാണ് കാരണം ഈ ഫസ്റ്റ് റോ അതേപടി നിലനിൽക്കും അതിനാൽ ഇവിടെയാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത് നമ്മുടെ മുൻ ലെക്ച്ചറുകളിൽ നിന്ന് നിങ്ങൾ ഇതിനകം ഓർക്കുന്നുവെങ്കിൽ നെ നമ്മൾ ഫ്രീ വേരിയബിളുകൾ എന്ന് വിളിക്കുന്നു ഫ്രീ വേരിയബിൾ ഈ കേസിൽ ഒന്ന് മാത്രം എന്നിവയെ ആശ്രയിച്ചുള്ള വേരിയബിളുകളാണ് അതിനാൽ ഇവിടെ സിസ്റ്റത്തിലെ പരിഹാരത്തിൽ ഒരു ഫ്രീ വേരിയബിൾ ഉള്ളതിനാൽ നമുക്ക് സ്വാഭാവികമായും പരിഹാരത്തിന്റെ അനന്തമായ സാധ്യതകൾ ഇപ്പോൾ ലഭിക്കുന്നു പരിഹാരത്തിന്റെ അനന്തമായ സാധ്യതകൾ ഒരിക്കൽ നമ്മൾക്ക് ലഭിച്ചാൽ സിസ്റ്റം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആകാൻ കഴിയില്ല കാരണം കൾ എല്ലാം 0 ആയിട്ടുള്ള യൂനിക് സൊലൂഷൻ നമുക്ക് ഇല്ല അതിനാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് ഇപ്പോൾ വളരെയധികം പരിഹാരങ്ങൾ ഉണ്ട് കാരണം ഈ ഒരു ഫ്രീ വേരിയബിളാണ് മാത്രമല്ല നമുക്ക് ആവശ്യമുള്ളതെന്തും തിരഞ്ഞെടുക്കാം ഉദാഹരണത്തിന് നമ്മൾ 1 ആയി എടുത്തിട്ടുണ്ട് തുടർന്ന് ഈ സമവാക്യത്തിൽ നിന്ന് നമുക്ക് എന്നിങ്ങനെ ലഭിക്കും അതിനാൽ ഈ ൻറെ ചോയ്സ് അനുസരിച്ച് മറ്റ് എല്ലാ ലാംഡാകളും നമുക്ക് ഇവിടെ ലഭിക്കുന്നു ഇതിനർത്ഥം നമ്മൾക്ക് ഈ ബന്ധം ഇവിടെ ലഭിക്കുന്നു അതിനാൽ സ്വാഭാവികമായും അവ ഡിപെൻഡന്റ് ആണ് അവ ഇൻഡിപെൻഡന്റ് അവ ഈ ബന്ധത്തിൽ പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഇവിടെ നൽകിയിരിക്കുന്ന വെക്റ്ററുകളുടെ സെറ്റ് ലീനിയർലി ഡിപെൻഡന്റ് ആണ് ഇവിടെയുള്ള മറ്റൊരു പ്രോബ്ലം സെറ്റ് ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ അതോ ലീനിയർലി ഡിപെൻഡന്റ് ആണോ എന്ന് പരിശോധിക്കും മുമ്പത്തേതിലേക്ക് മടങ്ങുക നമ്മൾക്ക് ഉള്ളത് സമാനമായ ഒരു പ്രോബ്ലമാണ് നമ്മൾക്ക് അവിടെ നാല് വെക്റ്ററുകളുണ്ടായിരുന്നു നമ്മുടെ ഓഗ്മെന്റഡ് മാട്രിക്സിൽ ഈ വെക്റ്ററുകൾ ഉണ്ടായിരുന്നു ഈ വെക്റ്ററുകളെല്ലാം അവിടെ നിരകളായിരുന്നു അതിനാൽ ഇവയെല്ലാം നമ്മൾ ഇവിടെ നിരകളിൽ സൂക്ഷിച്ചു വലതുവശത്ത് ഈ ബി എല്ലായ്പ്പോഴും 0 ആണ് നമുക്ക് എല്ലായ്പ്പോഴും എഴുതേണ്ടതില്ല കാരണം അത് മാറാൻ പോകുന്നില്ല അതിനാൽ നമുക്ക് A യുമായി തന്നെ പ്രവർത്തിക്കാനും റോ എക്കലോൺ ഫോം ഫോമീലേക്ക് റെഡ്യൂസ് ചെയ്യാനും കഴിയുന്നു അവിടെ നിന്ന് സൊലൂഷൻറെ എക്സിസ്റ്റൻസ് നിഗമനം ചെയ്യാം അതിനാൽ ഇവിടെ ഇപ്പോൾ ഈ പുതിയ പ്രോബ്ലത്തിലേക്ക് മടങ്ങുക നമ്മൾക്ക് മൂന്ന് വെക്റ്ററുകളുണ്ട് ഈ വെക്റ്ററുകളുടെ ലീനിയർ ഇൻഡിപെൻഡൻസ് പരിശോധിക്കേണ്ടതുമുണ്ട് അതിനാൽ നമ്മൾ എന്താണ് പരിഗണിക്കുന്നത് ലീനിയർ സമവാക്യങ്ങളുടെ സിസ്റ്റത്തിലൂടെ നമ്മൾ നേരത്തെ രൂപപ്പെടുത്തിയ ഓഗ്മെന്റഡ് മാട്രിക്സ് നമ്മൾ നേരിട്ട് പരിഗണിക്കുന്നു അതിനാൽ ഇപ്പോൾ നമ്മൾ ഇത് കുറച്ച എക്കലോൺ രൂപത്തിലേക്ക് കുറയ്ക്കും ഇത് ഈ സാഹചര്യത്തിൽ വളരെ എളുപ്പമാണ്

നമുക്ക് അവസാനമായി ഈ റോ റെഡ്യൂസ്ഡ് എക്കലൻ ഫോം ലഭിക്കുന്നു നമുക്ക് ഇവിടെ ഫസ്റ്റ് റോയിൽ 2 ഒരു പിവറ്റ് ഘടകമാണ് സെക്കൻഡ് റോയിൽ 32 ഒരു പിവറ്റ് ഘടകമാണ് ഈ മൂന്നാമത്തെ റോയ്ക്ക് ഒരു പിവറ്റ് ഘടകമുണ്ടാകില്ല അതിനാൽ ഈ രണ്ട് പിവറ്റ് ഘടകങ്ങൾ ഇവിടെയുണ്ട് മൂന്നാമത്തെ റോ 0 റോയാണ് ഇപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുന്നത് എന്താണ് നമുക്ക് ഫ്രീ വേരിയബിൾ ഉണ്ട് കോളം 3 ന് അനുയോജ്യമായ എന്ന ഫ്രീ വേരിയബിൾ നമ്മൾക്ക് ഉണ്ട് മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനും കഴിയും അതിനാൽ കണക്കുകൂട്ടലിന്റെ ലാളിത്യത്തിനായി നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് ചെയ്താൽ എന്നിവ സമവാക്യ നമ്പർ 2 ൽ നിന്നും സമവാക്യ നമ്പർ 1 ൽ നിന്നും നമുക്ക് ലഭിക്കും നായി മറ്റേതൊരു നമ്പറും ഇവിടെ എടുക്കാം നമ്മൾക്ക് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അതിനാൽ ഉദാഹരണമായി ഈ കോമ്പിനേഷനിലൂടെ നമുക്ക് എന്ന് ലഭിക്കുന്നു ഇവിടെ വളരെയധികം സാധ്യതകളുണ്ട് ഈ യെ 1 ആയി തിരഞ്ഞെടുത്താൽ നമുക്ക് വ്യത്യസ്ത ഉം ഉം ലഭിക്കുന്നു അല്ലെങ്കിൽ ക്ക് മറ്റേതെങ്കിലും നമ്പർ എടുത്താൽ ഉം ഉം മാറും അതിനാൽ തീർച്ചയായും നമുക്ക് ഇവിടെ യൂണിക് ആയ ഒരു റെപ്രെസെന്റഷൻ ഇല്ല കഴിയുന്നത്ര ധാരാളം റെപ്രെസെന്റഷനുകൾ നമുക്ക് ആവാം ഇതു പറയുന്നത് നൽകിയിരിക്കുന്ന വെക്റ്ററുകൾ ലീനിയർലി ഡിപെൻഡന്റ് ആണ് എന്നതാണ് അവയുടെ ആശ്രിതത്വത്തിനായി ഇതിനകം ഇവിടെയുള്ള ബന്ധങ്ങളിലൊന്ന് എന്നാണ് അതായത് 1 ആശ്രിതത്വം ഈ കേസിൽ നമ്മൾ കാണിച്ചിരിക്കുന്നു അതിനാൽ ഈ സെറ്റ് ലീനിയർലി ഡിപെൻഡന്റ് ആണ് അതിനാൽ ഇന്ന് നമ്മൾ പഠിച്ചത് വെക്റ്ററുകളുടെ ഇൻഡിപെൻഡൻസിനെക്കുറിച്ചാണ് അടുത്ത ലെക്ച്ചറിൽ നമ്മൾ വെക്റ്റർ സ്പേസുകൾ പരിഗണിക്കുമ്പോൾ ഇത് വീണ്ടും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഒപ്പം വെക്റ്ററുകളുടെ ഈ ലീനിയർ കോമ്പിനേഷൻ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഈ സമവാക്യ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് എന്ന യൂണിക് സൊലൂഷൻ ലഭിക്കുകയാണെങ്കിൽ ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻഡ് ആണെന്ന് നമ്മൾ വിളിക്കുന്നു വെക്ടറുകൾ തമ്മിൽ പരസ്പരം ആശ്രയിക്കുന്നില്ല കാരണം ഈ ബന്ധത്തിൽ നിന്ന് പുറത്തുവരുന്ന ഒരേയൊരു സാധ്യത അതാണ് അതിനാൽ ഈ വെക്റ്ററുകൾക്കിടയിൽ നമുക്ക് ഒരു ആശ്രയത്വവും എഴുതാൻ കഴിയില്ല അതിനാലാണ് ഈ ലീനിയർലി ഇൻഡിപെൻഡൻസിയെ അവ ഇൻഡിപെൻഡൻഡ് ആണെന്ന് നമ്മൾ വിളിക്കുന്നത് നമ്മൾക്ക് ഒരു നോൺസീറോ സൊലൂഷൻ ലഭിക്കുമ്പോഴെല്ലാം അത് അനന്തമായ നിരവധി സൊലൂഷൻകളുടെ കാര്യമായിരിക്കും അതിനാൽ ഈ ബന്ധങ്ങൾ എഴുതാൻ നമുക്ക് നിരവധി മാർഗങ്ങളുണ്ട് മറ്റുള്ളവയെ അടിസ്ഥാനമാക്കി എഴുതാൻ കഴിയും അതാണ് നമ്മൾ ഒരു ലീനിയർ ഡിപെൻഡൻസ് എന്ന് വിളിക്കുന്നത് അത്തരം കേസിൽ വെക്റ്ററുകൾ ലീനിയർലി ഡിപെൻഡൻഡ് ആയിരിക്കും ഈ ലെക്ച്ചറിൽ നമ്മൾ ഉപയോഗിച്ച റഫറൻസുകൾ ഇവയാണ് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി